എൻപിടിഇഎൽ ലെ ഓൺലൈൻ സോഷ്യൽ മീഡിയ കോഴ്സിലെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഓൺലൈൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് സ്വാഗതം ഇത് ആഴ്ച 8 ആണ് ഇത് ആഴ്ചയുടെ രണ്ടാം ഭാഗമാണ് അതിനാൽ നമ്മൾ കാണുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ സാധാരണയായി ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ള ജനപ്രിയ നെറ്റ്വർക്കുകളാണ് ഇവയെ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്ന് വിളിക്കുന്നു പ്രത്യേകിച്ചും നമ്മൾ ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കായ ഫോർസ്ക്വയറും നോക്കി ഇപ്പോൾ ഞാൻ ഹ്രസ്വമായി ചിന്തിക്കുന്നത് നമ്മൾ ക്ഷണികമായ സോഷ്യൽ നെറ്റ്വർക്കുകളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നെറ്റ്വർക്കുകളാണ് ഉള്ളടക്കങ്ങൾ ക്ഷണികമായ ചില സമയങ്ങൾക്ക് ശേഷം ഇത് യഥാർത്ഥത്തിൽ നീക്കം ചെയ്യപ്പെടും ഇത് ഒരു സ്നാപ്പ്ഷോട്ട് നെറ്റ്വർക്ക് പോലെയാണ് നിങ്ങൾ ചില ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്നു ചില നിമിഷം കഴിഞ്ഞു ആ ഉള്ളടക്കം നീക്കം ചെയ്യപ്പെടും പ്രഭാഷണത്തിന്റെ ഈ ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് അജ്ഞാത നെറ്റ്വർക്കുകൾ എന്താണ് എന്നാണ് അജ്ഞാത നെറ്റ്വർക്കുകൾ നെറ്റ്വർക്കുകളാണ് അവിടെ അത് വ്യക്തമായി കാണുന്നില്ല അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്നതെന്ന് കണ്ടെത്താൻ കഴിയില്ല അതിനാൽ ചില ഉദാഹരണങ്ങൾക്കൊപ്പം അജ്ഞാത നെറ്റ്വർക്കുകൾ എന്താണെന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാം കൂടാതെ നടത്തിയ ചില ഗവേഷണങ്ങളും ഞാൻ കാണിച്ചുതരാം ഫെയ്സ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ പോലുള്ള സാധാരണ നെറ്റ്വർക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അജ്ഞാത നെറ്റ്വർക്ക് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കണ്ടെത്താൻ ചില ജോലികൾ ചെയ്യും 4ചാൻ വിസ്പർ സീക്രെട് യിക് യാക് വിക്കർ 4chan Whisper Secret Yik Yak Vikr എന്നിവയാണ് അജ്ഞാത നെറ്റ്വർക്കുകളുടെ ചില ഉദാഹരണങ്ങൾ വിവിധ തരം അജ്ഞാത സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇവയാണ് അത്തരം നിരവധി നെറ്റ്വർക്കുകൾ അവിടെ ലഭ്യമാണ് ഇത് ഒരു ചെറിയ പട്ടിക മാത്രമാണ് നമുക്ക് അജ്ഞാത സോഷ്യൽ നെറ്റ്വർക്ക് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് ട്വിറ്റർ ഉണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അജ്ഞാത നെറ്റ്വർക്ക് ആവശ്യമായി വരുന്നത് അത് മുൻഗണന നൽകുന്ന അല്ലെങ്കിൽ അജ്ഞാതത്വം നൽകുന്നതിനുള്ള സൌകര്യം നൽകുന്നു എന്നതാണ് കാരണം ഇത് സ്വകാര്യതയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ആളുകൾ സ്വകാര്യതയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുന്നു ആളുകൾ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കൂടുതൽ സ്വകാര്യത നേടാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആളുകൾ നെറ്റ്വർക്കുകൾ തിരയുന്നു അത് കൂടുതൽ അജ്ഞാതത്വം നൽകും സ്നോഡൻ പോലുള്ള സംഭവങ്ങളും പ്രിസം പോലുള്ള പ്രോജക്ടുകൾ പൊതുവായി ലഭ്യമായ വിവരങ്ങളാണ് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനുകൾക്ക് ലഭ്യമായ വിവരങ്ങൾ മറ്റ് കാരണങ്ങൾക്കും ഉപയോഗിക്കാം തീർച്ചയായും ഇന്ത്യയിൽ ഒരു സംഭവമുണ്ടായിട്ടുണ്ട് ഒരാൾ ഒരു പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് വൈറലാവുകയും അതിന്റെ അനന്തരഫലങ്ങളും ഉണ്ടാകുകയും ചെയ്തു അതിനാൽ ലോകമെമ്പാടുമുള്ള നിരവധി സംഭവങ്ങൾ കാരണം സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ കൂടുതൽ സ്വകാര്യത പ്രതീക്ഷിക്കുന്നു അവർ നെറ്റ്വർക്കുകളിൽ അജ്ഞാതത്വം പ്രതീക്ഷിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ഫെയ്സ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്താൽ ഞാൻ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്താൽ അത് ശരിക്കും വ്യക്തമാണ് അത് പികെ പൊന്നുരംഗം ഡോട്ട് കുമാരഗുരു ഡോട്ട് അല്ലെങ്കിൽ ട്വിറ്ററിലെ പോങ്കുരു ആണ് എന്ന് വാസ്തവത്തിൽ എനിക്ക് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ എന്തെങ്കിലും പറയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പക്ഷേ പോസ്റ്റിന് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ഈ അജ്ഞാത സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കും അതിനാൽ വിസ്പർ ഡോട്ട് എസ്എഛ് whisper dot sh എന്ന വെബ്സൈറ്റിന്റെ സ്ലൈഡ് സ്ക്രീൻ ഷോട്ട് ഇതാ ഈ ഇമേജിലെ ഏറ്റവും പോപ്പുലർ ലേറ്റസ്റ്റ് ലോൽ കൺഫെഷൻസ് റിലേഷൻഷിപ്സ് എന്നിവ ഏറ്റവും മികച്ച ക്രമത്തിൽ ഉള്ളടക്കം ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ അവ ഈ വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെ വിസ്പറിൽ അപ്ലോഡ് ചെയ്യുന്ന ഉള്ളടക്കം ഈ വിഭാഗങ്ങളിൽ 1 ൽ എത്തുന്നു വിസ്പർ ഡോട്ട് എസ്എഛ് ആണ് യുആർഎൽ വെബ്സൈറ്റിൽ സന്ദർശിക്കാനും അക്കൌണ്ട് സൃഷ്ടിക്കാനും അക്കൌണ്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാനും ഞാൻ നിങ്ങളെ അനുവദിക്കും ഇവിടെ ഒരു യുആർഎൽ ഉണ്ട് യുട്യൂബ് ന്റെ ചില സവിശേഷതകൾ വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് ഇപ്പോൾ വീഡിയോ കാണാം തുടർന്ന് വീഡിയോയിൽ നിന്നുള്ള ചില വിശദാംശങ്ങളും വിസ്പറിന്റെ മറ്റ് സവിശേഷതകളും ഞാൻ വിവരിക്കും വിസ്പർ എന്ന ഈ സൂപ്പർ പോപ്പുലർ മൊബൈൽ ആപ്പിൽ രഹസ്യങ്ങളും നുണകളും ധാരാളം സ്പാമുകളും ഉണ്ട് അജ്ഞാതതയുടെ ഒരു സ്ക്രീനിന് പിന്നിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുമ്പസാര അപ്ലിക്കേഷനാണ് വിസ്പർ ഈ വെബ്സൈറ്റിന് സമാനമാണ് പോസ്റ്റ് സീക്രട്ട് എന്റെ ഏറ്റവും നല്ല സുഹൃത്തിന്റെ നഗ്നചിത്രങ്ങൾ ഞാൻ രഹസ്യമായി പകർത്തിയതുപോലെ ഉപയോക്താക്കൾക്ക് അവരുടെ ഉറ്റസുഹൃത്തിനോട് പോലും പറയാത്ത ആഴത്തിലുള്ള ഇരുണ്ട രഹസ്യങ്ങൾ ഇവിടെ സമർപ്പിക്കാൻ കഴിയും വിസ്പർ കുറച്ച് വർഷങ്ങളായി പ്രചാരത്തിലുണ്ട് മുഖസ്തുതി ലജ്ജാകരമായ നിഷിദ്ധമായ ചിലപ്പോഴൊക്കെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ആളുകൾക്ക് ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് വിസ്പർ നിങ്ങളുടെ ഇമെയിലോ കോൺടാക്റ്റുകളോ ശേഖരിക്കുന്നില്ല ആപ്പിനുള്ളിൽ സ്ക്രീൻ പേരുകൾ പ്രാധാന്യം കുറവാണ് പാസ്വേഡിന്റെ സ്ഥാനത്തുള്ള പിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് മാറ്റാനും കഴിയും അതിനാൽ മിക്ക സോഷ്യൽ നെറ്റ്വർക്കുകളേക്കാളും അജ്ഞാതതയുടെ വർദ്ധിച്ച പ്രീമിയം തീർച്ചയായും ഇതിനു ഉണ്ട് നിങ്ങളുടെ ആഴത്തിലുള്ള ഇരുണ്ട രഹസ്യങ്ങൾ അനുസരിച്ച് പ്ലസ് ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ വിസ്പർ ടൈപ്പ് ചെയ്യുക അതോടൊപ്പം ഒരു സ്റ്റോക്ക് ഫോട്ടോ ഓട്ടോ ജനറേറ്റ് ചെയ്യും അതിനാൽ ഒരു കുമ്പസാരം മാത്രമല്ല ഇമെയിൽ എസ്എംഎസ് അല്ലെങ്കിൽ സോഷ്യൽ വഴി നിങ്ങൾക്ക് പങ്കിടാൻ കഴിയുന്ന മെമ്മെ ജനറേറ്ററാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് സ്വകാര്യ സന്ദേശമയയ്ക്കാനും കഴിയും Q അനുസരിച്ച് ചില ഉപയോക്താക്കൾക്കും ട്രോളുകൾക്കും സ്പാമർമാർക്കുമായി പ്രീമിയം സന്ദേശമയയ്ക്കൽ ഉണ്ട് എന്നാൽ നിങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും ഇത് സൌജന്യമാണ് ഇക്കാരണത്താൽ നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് അവരിൽ പലരും ഹുക്ക് അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇവ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകന് സന്ദേശമയയ്ക്കുക അതിനായി നിങ്ങൾ മന്ദബുദ്ധിയാണെങ്കിൽ നിങ്ങൾ മിക്കവാറും 10 വയസ്സിന് താഴെയാണ് എന്നിങ്ങനെ കാണും മോശം ഇനങ്ങളും ചിലപ്പോൾ നുണകളും ഉണ്ട് ഉദാഹരണത്തിന് സെപ്റ്റംബറിൽ ഒരാൾ പോസ്റ്റ് സീക്രറ്റിൽ ഒരു കൊലപാതക കുറ്റസമ്മതം പോസ്റ്റ് ചെയ്തു സ്വയം അവകാശപ്പെട്ട കുറ്റവാളിക്കുവേണ്ടി തിരക്കിട്ട് റെഡ്ഡിറ്റ് ഇൽ ജനങ്ങൾ തിരച്ചിൽ നടത്തി പക്ഷെ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ ആഴ്ച അരിസോണയിൽ ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം വിസ്പർ ആപ്പിൽ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു എന്നാൽ രഹസ്യങ്ങൾ പോസ്റ്റുചെയ്യുന്നതിലും മറ്റുള്ളവരെ അറിയുന്നതിലും ഉള്ള ആകർഷണം കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ വിസ്പർ മന്ദഗതിയിലാക്കുന്നത് ട്വിറ്റർ ഫെയ്സ്ബുക്ക് ഗൂഗിൾ എന്നിവയെ കുറിച്ച് ഞാൻ എന്താണ് കരുതുന്നതെന്ന് എല്ലായ്പ്പോഴും എന്നെ അറിയിക്കാൻ നിങ്ങൾക്ക് കഴിയും കൂടാതെ നെറ്റ്ഫ്ലിക്സ് ഡോട്ട് കോം സ്ലാഷ് ഡബ്ലിയു ടി ബി ഡി ൽ സൈൻ അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സൌജന്യ നെറ്റ്ഫ്ലിക്സ് ട്രയൽ ലഭിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ വിസ്പർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് വീഡിയോ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നു ഏത് തരത്തിലുള്ള ഉപയോക്താക്കളാണ് വിസ്പറിൽ സംസാരിക്കുന്നത് അവർ ഏത് തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്നു ചില ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ വിസ്പർ എങ്ങനെ പ്രവർത്തിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ചിത്രങ്ങളിൽ ലയിപ്പിക്കുകയും നിങ്ങൾക്ക് പോസ്റ്റുകൾ ലഭിക്കുകയും മറ്റ് നിബന്ധനകളിൽ മെമ്മുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ വിസ്പർ പോസ്റ്റിനോട് ആളുകൾ പ്രതികരിക്കുന്ന രീതി ഹൃദയങ്ങളിലൂടെയാണ് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് ചാറ്റുചെയ്യാനും കഴിയും വീണ്ടും ഓർക്കുക ഇതെല്ലാം അജ്ഞാതമായിരിക്കും പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പദങ്ങൾ കാണാം ചില പദങ്ങൾ വിസ്പെരിങ് അല്ലെങ്കിൽ പോസ്റ്റുകൾ റിപ്ലൈകൾ അല്ലെങ്കിൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ട്വിറ്ററിലെ മറുപടി പോലെ പദങ്ങൾ അറിഞ്ഞിരിക്കണം പോസ്റ്റുകൾ അജ്ഞാതമാണ് നിങ്ങൾക്ക് ഇത് പൊൻങ്കുരു ആണ് അയച്ചത് എന്ന് കാണാൻ കഴിയില്ല എനിക്ക് ഒരു അക്കൌണ്ട് ഉണ്ടായിരിക്കാം അത് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഞാൻ യൂസർനെയിം ആയി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എന്തും രസകരമാംവിധം നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടാതെ കൂടുതൽ തവണ ആവശ്യമുള്ളത്ര അജ്ഞാതമായി യൂസർനെയിം മാറ്റാൻ അനുവദിക്കുന്നു അതിനാൽ തിരികെ പോയി ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത വ്യക്തിയെ നോക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു യൂസർ ഐഡിയുടെ വ്യക്തിഗത വിവരങ്ങളൊന്നും വിസ്പർ ബന്ധിപ്പിക്കുന്നില്ല ഇത് ഒരു വിവരവും ശേഖരിക്കുന്നില്ല കൂടാതെ ഒരു യൂസർ ഹിസ്റ്ററി യും ആർക്കൈവ് ചെയ്യുന്നില്ല അതാണ് അവർ അവകാശപ്പെടുന്നത് ഉപയോക്താക്കൾ തമ്മിലുള്ള നിരന്തരമായ സാമൂഹിക ബന്ധങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നില്ല അതിൽ ശ്രദ്ധിക്കുന്ന വ്യക്തി അതിന് മറുപടി നൽകുന്ന വ്യക്തി ഉപയോക്താക്കളുടെ ലിങ്കുകൾ എന്നിവ സൂക്ഷിച്ചിട്ടില്ല ഇവിടത്തെ ഗൃഹപാഠവും നിങ്ങൾ മുമ്പ് കണ്ട ചോദ്യങ്ങളും ഫെയ്സ്ബുക്കിന്റെയോ ട്വിറ്ററിന്റെയോ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഓർക്കുന്നതുപോലെ ആണ് ഉപയോക്താക്കൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളുടെയും ഉള്ളടക്കം ഒരു ഗ്രാഫായി സംഭരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആ ഗ്രാഫ് വിശകലനം ചെയ്യാൻ കഴിയും നമുക്ക് ട്വിറ്ററിൽ നിന്നോ ഫെയ്സ്ബുക്കിൽ നിന്നോ ഗ്രാഫ് വീണ്ടെടുക്കാനും ഈ ഗ്രാഫ് ഉപയോഗിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാനും കഴിയും നിങ്ങൾക്ക് അജ്ഞാതമായി ഒരു സന്ദേശം ഹാർട്ട് ചെയ്യാം ഒരു ഹാർട്ട് അടിസ്ഥാനപരമായി ഞാൻ സ്ലൈഡിൽ കാണിച്ച ഫേസ്ബുക്കിൽ ഉള്ളത് പോലെ ആണ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന വീഡിയോയ്ക്കെതിരായ അല്ലെങ്കിൽ ഇതിലെ സ്വകാര്യ സന്ദേശങ്ങളിൽ സ്വകാര്യ സന്ദേശങ്ങൾ കാണിച്ചെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപയോക്താക്കൾക്കിടയിൽ സ്വകാര്യ സന്ദേശങ്ങൾ പോസ്റ്റുചെയ്യാനാകും വിസ്പറിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണിത് അതിനാൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മൾശ്രമിക്കും എന്നതാണ് അജ്ഞാത പരിതസ്ഥിതിയിൽ വിസ്പർ ഉപയോക്താക്കൾ എങ്ങനെയാണ് ഇടപെടുന്നത് അല്ലെങ്കിൽ വിസ്പറിൽ എങ്ങനെയാണ് ഇടപെടലുകൾ നടക്കുന്നത് ഉപയോക്താക്കൾ പരമ്പരാഗത നെറ്റ്വർക്കുകളുടേതിന് സമാനമായ കമ്മ്യൂണിറ്റികൾ രൂപീകരിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് ഫെയ്സ്ബുക്കിലെ ആളുകളുടെ ഇടപെടൽ ഇത് വിസ്പറിലോ ട്വിറ്ററിലോ ഉള്ള ആളുകളുടെ ഇടപെടലിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിസ്പർ ഇന്റെ ഐഡന്റിറ്റികളുടെ അഭാവം ഉപയോക്താക്കൾ തമ്മിലുള്ള ശക്തമായ ബന്ധം ഇല്ലാതാക്കുമോ അതായത് പികെ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്ക് ശക്തമായ ബന്ധങ്ങളില്ലെങ്കിൽ അത് നിങ്ങൾക്കും എനിക്കും ഉള്ള ശക്തമായ ബന്ധം ഇല്ലാതാക്കുന്നു നമ്മൾ രണ്ടുപേരും വിസ്പർ ഇൽ ഉണ്ടെന്നു കരുതുക നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഇടുന്നു ഞാൻ അതിനോട് പ്രതികരികുന്നു ഞാൻ അതിന് ഒരു മറുപടി നൽകുന്നു നിങ്ങൾക്കറിയില്ലെങ്കിൽ പികെയാണ് ഐഐഐടി ഡൽഹിയിലെ ഫാക്കൽറ്റി അല്ലെങ്കിൽ എനിക്ക് ഉള്ള ചില പ്രൊഫൈൽ അത് ഞാനാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് തുടരുമോ സംഭവിക്കുന്നതിൽ കൂടുതൽ ശക്തമായ ബന്ധമുണ്ടോ ഉദാഹരണത്തിന് ചില ആളുകൾ വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ കാണാം ഉദാഹരണത്തിന് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ ചില കൂട്ടം ആളുകൾ അത് എപ്പോഴും ലൈക് ചെയ്യും അവർ എപ്പോഴും കൃത്യമായി ഒരു അഭിപ്രായം പറയുകയോ മറുപടി നൽകുകയോ റീട്വീറ്റ് ചെയ്യുകയോ ചെയ്യും അതിനാൽ അവയെ അടിസ്ഥാനപരമായി ശക്തമായ ബന്ധങ്ങൾ എന്ന് വിളിക്കുന്നു ഇത് വിസ്പറിൽ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ട ചോദ്യം അജ്ഞാതനായതിനാൽ ദീർഘകാല ഇടപഴകലിന് നിർണായകമായ സ്റ്റിക്കിനെസ് ഇത് ഇല്ലാതാക്കുന്നു സ്റ്റിക്കിനെസ് അടിസ്ഥാനപരമായി നിങ്ങൾ നെറ്റ്വർക്കിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ഘടകമാണ് കൂടുതൽ കൂടുതൽ ആളുകൾ അതിലേക്ക് കണക്റ്റുചെയ്യുന്നു അല്ലെങ്കിൽ ഒറ്റയാൾ യഥാർത്ഥത്തിൽ നെറ്റ്വർക്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു ഈ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമുക്കുള്ള നാല് ലക്ഷ്യങ്ങൾ വ്യക്തമാണെന്ന് എനിക്കറിയാം ഇവിടെ നമ്മൾ ഒരു നെറ്റ്വർക്ക് എടുക്കും ഈ സാഹചര്യത്തിൽ അത് വിസ്പർ ആണ് ഈ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചില ഡാറ്റ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ വരച്ച ചില അനുമാനങ്ങൾ ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും അതിനാൽ ഈ വിശകലനം നടത്തുന്നതിനായി ശേഖരിച്ച ഡാറ്റ 2014 മുതലുള്ളതാണ് തീർച്ചയായും വിസ്പറിന് ഒരു എപിഐ ഇല്ല അതിനാൽ ഡാറ്റ സ്ക്രാപ്പ് ചെയ്തു അവയിൽ എല്ലാം ഉൾപ്പെടുന്നു അവർ പോസ്റ്റ് ഐഡി പോലെയുള്ള വിസ്പർ ഐഡി പോസ്റ്റ് ചെയ്യുമ്പോൾ ടൈം സ്റ്റാമ്പ് വിസ്പറിന്റെ പ്ലെയിൻ ടെക്സ്റ്റ് ചിത്രത്തിലുണ്ടായിരുന്ന ടെക്സ്റ്റ് നിങ്ങളുടെ ഹാൻഡിൽ ആയ രചയിതാവിന്റെ വിളിപ്പേര് പരമ്പരാഗത അർത്ഥത്തിൽ പറയുന്ന പേരുകൾ ലഭ്യമായ ലൊക്കേഷൻ ടാഗ് വിസ്പറിനും ലൈക്കുകൾക്കുമുള്ള മറുപടികളുടെ എണ്ണം ഞങ്ങൾ സംസാരിച്ച ഹൃദയങ്ങളാണ് അതിനാൽ ഇത് ശേഖരിക്കാൻ വളരെ ലളിതമാണ് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നെറ്റ്വർക്കുകളിലും ഇത്തരത്തിലുള്ള വിവരശേഖരണം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒരു നെറ്റ്വർക്ക് എടുത്ത് കുറച്ച് അടിസ്ഥാന ഡാറ്റ ശേഖരിക്കുക കുറച്ച് വിശകലനം നടത്തുക യഥാർത്ഥത്തിൽ അർത്ഥവത്തായ രസകരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക 9 ദശലക്ഷം വിസ്പറുകൾ 15 ദശലക്ഷം മറുപടികൾ 1 ദശലക്ഷം ആഗോള ഉപയോക്തൃ സാർവത്രിക ഐഡന്റിഫയറായ ജിയൂഐഡി കൾ എന്നിവ ഉൾപ്പെടുന്ന ഡാറ്റ ശേഖരിച്ചു നിങ്ങൾ ട്വിറ്ററിലും കണ്ടത് പോലെ എല്ലാ ഉപയോക്താക്കൾക്കുമുള്ള ഐഡിയാണിത് അതിനാൽ ഉപയോക്താക്കൾക്ക് ഒരു അദ്വിതീയ ഐഡി ലഭിക്കുന്നു അതാണ് ശേഖരിച്ചത് അതിനാൽ ഈ ജോലിയിൽ പ്രവർത്തിച്ച ടീം വിസ്പർ ടീമുമായി സംവദിച്ചു അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റയെക്കുറിച്ചും ഈ സാർവത്രിക ഐഡന്റിഫയറിനെക്കുറിച്ചും അവർ അവരോട് ശരിക്കും സംസാരിച്ചു ഈ ഐഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തിരികെ പോയി ഏത് ഉപയോക്താവ് എന്താണ് ചെയ്തതെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് അവർ വിസ്പർ ടീമിനെ ബോധ്യപ്പെടുത്തി അതിനാൽ ജൂൺ 2014 ൽ യൂസർ ജിയൂഐഡി ആശയം നീക്കം ചെയ്തു അതിനാൽ അവർ ഡാറ്റ ശേഖരിച്ചു ഗവേഷകർ എന്താണ് വിസ്പർ ഇൽ നടക്കുന്നത് നോക്കുകയും തുടർന്ന് ഇത് നീക്കംചെയ്യാൻ വിസ്പർ ടീമുമായി ചർച്ച ചെയ്യുകയും ചെയ്തു അവർ യഥാർത്ഥത്തിൽ ഇതിനെ കുറിച്ച് എഴുതി അതിനാൽ ഇപ്പോൾ വീണ്ടും വിശകലനം നോക്കുക പണ്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അതിനാൽ എന്താണ് വിശകലനം ഞാൻ ആദ്യമായി ഈ ഡാറ്റ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള അനുമാനങ്ങൾ സത്യമായിരിക്കുമെന്നും ഈ നാല് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഞാൻ പതുക്കെ നോക്കാൻ പോകുന്നു എക്സ് ആക്സിസ് ൽ നമുക്ക് സമയമുണ്ട് ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി മുതൽ മെയ് വരെ അപ്പോഴാണ് അവർ ഡാറ്റ ശേഖരിച്ചത് കൂടാതെ വൈ ആക്സിസ് പ്രതിദിനം പോസ്റ്റുകളുടെ എണ്ണമാണ് അവർ യഥാർത്ഥത്തിൽ 3 വ്യത്യസ്ത തരം പോസ്റ്റുകൾ നോക്കി ഏതാണ് മന്ത്രം അതിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഉള്ളടക്കം എന്താണെന്ന് പറയാൻ ഒന്ന് മറുപടികൾ അതായത് എത്ര പ്രത്യേക മറുപടിക്കായി എത്ര മറുപടികൾ പോസ്റ്റ് ചെയ്യുന്നു കൂടാതെ മൂന്നാമത്തെ വിഭാഗത്തിലെ വിസ്പേർസ് വാക്കുകൾ ഇല്ലാതാക്കപ്പെടുന്നു നമ്മൾ പിന്നീട് ഈ ഇല്ലാതാക്കലിലേക്ക് പോകുന്നു ഇത് രസകരമായ ഒരു പ്രശ്നമാണ് ഇതും ട്വിറ്ററിലുണ്ട് നമുക്ക് 2016 ൽ നടത്തിയ കൂടുതൽ സമീപകാല പഠനങ്ങൾ ഉണ്ട് ഉപയോക്താക്കൾ തീരുമാനിക്കുന്ന കാരണങ്ങളാൽ സോഷ്യൽ നെറ്റ്വർക്കിൽ പോസ്റ്റുചെയ്യുന്ന ധാരാളം ഉള്ളടക്കങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നതായി ആളുകൾ കണ്ടു അതിനാൽ വിസ്പർ കേസിൽ 55 ശതമാനം വിസ്പേർസ് ന് മറുപടികൾ ലഭിക്കില്ല ആളുകൾ ഉള്ളടക്കം പോസ്റ്റുചെയ്യുന്നു ആരും ഈ പോസ്റ്റുകൾക്ക് മറുപടി നൽകുന്നില്ല 25 ശതമാനം പേർക്ക് കുറഞ്ഞത് 2 മറുപടികളുടെ ഒരു ശൃംഖലയുണ്ട് 25 ശതമാനം പേർക്ക് മാത്രമാണ് കുറഞ്ഞത് 2 മറുപടികളുടെ ഒരു ചെയിൻ ഉള്ളത് 55 ശതമാനം വിസ്പേർസ് കൾക്കും മറുപടി ലഭിക്കുന്നില്ല യഥാർത്ഥ മറുപടികൾക്കിടയിലുള്ള സമയവും രസകരമാണ് പോസ്റ്റുചെയ്യുന്ന വിസ്പറിനുള്ള പ്രതികരണങ്ങൾ എത്ര പെട്ടെന്നാണ് ചെയ്ത പോസ്റ്റ് എത്ര വേഗത്തിൽ ആളുകൾ നോക്കുന്നു അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്തു മറുപടി നൽകുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ ഉള്ളടക്കം നോക്കാതെ സമയം മാത്രമാണ് നോക്കുന്നത് അതിനാൽ നിങ്ങളുടെ എക്സ് ആക്സിസ് സമയമാണെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ ഒരു മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുതൽ ഒരു ദിവസം ഒരു ദിവസം മുതൽ ഒരാഴ്ച 1 ആഴ്ചയിൽ കൂടുതൽ എന്നിവ കാണിക്കുന്നു മറുപടികളുടെ ഒരു ഭാഗമാണ് വൈ ആക്സിസ് വിസ്പറിന് ലഭിക്കുന്ന മറുപടികളുടെ അനുപാതം എന്താണെന്ന് ഇത് കാണിച്ചുതരുന്നു 54 ശതമാനം മറുപടികളും ആ യഥാർത്ഥ വിസ്പറിന്റെ ഒരു മണിക്കൂറിനുള്ളിലാണ് ഒരു മിനിറ്റിനും ഒരു മിനിറ്റ് തൊട്ടു ഒരു മണിക്കൂറിനും താഴെയുള്ള ആദ്യ രണ്ട് ബാറുകൾ നിങ്ങൾക്ക് ചേർക്കാൻ കഴിയും ഇത് 54 ശതമാനം ആണ് 54 ശതമാനം മറുപടികൾ ഒരു മണിക്കൂറിനുള്ളിലും 94 ശതമാനം ഒരു ദിവസത്തിനുള്ളിലും എത്തും അടിസ്ഥാനപരമായി ഒരു ദിവസം അവർക്ക് ഒരു പ്രതികരണം ലഭിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നീട് അത് ലഭിക്കില്ലെന്ന് ഇത് കാണിക്കുന്നു അവരിൽ പകുതിയിലധികം പേർക്കും ഒരു മണിക്കൂറിനുള്ളിൽ പ്രതികരണം ലഭിക്കും 1 3 ശതമാനം മറുപടികൾ ഒരാഴ്ചയോ അതിൽ കൂടുതലോ എടുക്കുന്നു അത് ഗ്രാഫിലെ അവസാന ബാർ ആണ് അതിനാൽ പോസ്റ്റ് ചെയ്തതിനുശേഷം ഒരു വിസ്പർ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പിന്നീട് ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയില്ല എന്നതാണ് നിഗമനം കാരണം ഇത് ഒരു അജ്ഞാത ആളുകളുടെ തരത്തിലുള്ള ഉള്ളടക്കമാണ് ഇത് കുറച്ച് ശ്രദ്ധ നേടുകയും പിന്നീട് നിർജ്ജീവം ആവുന്നു ഇത് നമ്മൾ കണ്ട മറ്റ് നെറ്റ്വർക്കുകൾക്ക് സമാനമാണ് അതിനാൽ ഓരോ ഉപയോക്താവിനും ഒരു പോസ്റ്റ് അതായത് എക്സ് ആക്സിസ് ഒരു ഉപയോക്താവിന്റെ വിസ്പർ ഇന്റെ മറുപടി ആണ് ഓരോ ഉപയോക്താവിനും വിസ്പർ ഇന്റെ മറുപടികളുടെയും കണക്കുണ്ട് അത് ഉപയോക്താവ് എത്ര തവണ ചെയ്യുന്നു എന്നതാണ് ഗ്രാഫിൽ രണ്ട് വരികളുണ്ട് ഒന്ന് ഡാർക്ക് ലൈൻ ആണ് അത് വിസ്പർ ആണ് ഡോട്ട് ചെയ്ത ലൈൻ ആണ് മറുപടി വൈ ആക്സിസ് സി ഡി എഫ് ആണ് ഉപയോക്താവിന്റെ ക്യുമുലേറ്റീവ് ആവൃത്തിക്ക് മുമ്പ് നിങ്ങൾ നിരവധി സിഡിഎഫുകൾ കണ്ടിട്ടുണ്ട് ഇവിടെ 80 ശതമാനത്തോളം ഉപയോക്താക്കളും മൊത്തം പത്തിൽ താഴെ വിസ്പറുകൾ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ വളരെ മോശമാണ് നിങ്ങൾ നെറ്റ്വർക്കുകൾ നോക്കിയാൽ 80 ശതമാനം ഉപയോക്താക്കളും മൊത്തം 10 ൽ താഴെ മന്ത്രങ്ങളും മറുപടികളും പോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഇത് മറ്റൊരു രീതിയിൽ നോക്കിയാൽ മിക്കവാറും 20 ശതമാനം ഉപയോക്താക്കളും യഥാർത്ഥത്തിൽ വളരെ സജീവമായ ആളുകളെയാണ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നെറ്റ്വർക്കിൽ പരമാവധി എണ്ണം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് കാണിക്കുന്നത് മറ്റ് നെറ്റ്വർക്കുകളിലും ഇത് നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് 15 ശതമാനം ഉപയോക്താക്കൾ മറുപടികൾ മാത്രം പോസ്റ്റ് ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ വിസ്പർ ചെയ്തിട്ടില്ല ഇത് അടിസ്ഥാനപരമായി വീണ്ടും കാണിക്കുന്നത് ആളുകൾ യഥാർത്ഥ ഉള്ളടക്കം സൃഷ്ടിക്കുന്നില്ല എന്നാണ് മറുപടികൾ പോസ്റ്റുചെയ്യുന്നത് കുറവാണ് ഉപയോക്താക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർ നോക്കുന്നു തുടർന്ന് അവർ അതിന് മറുപടി നൽകുന്നു മുപ്പത് ശതമാനം ഉപയോക്താക്കളും വിസ്പർ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അവർ മറുപടി നൽകുന്നില്ല അവർ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന ആളുകൾ മാത്രമാണ് പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഒരു ഉള്ളടക്കത്തിനും മറുപടി നൽകുന്നില്ല അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല അത് വ്യക്തമാണ് അതിന് അടിസ്ഥാനപരമായി നമ്മൾ കണ്ട രണ്ട് വിശകലനങ്ങളുണ്ട് ഒന്ന് വിസ്പറിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കം എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നതാണ് അവരുടെ ശ്രദ്ധ നേടാൻ ഇത് എത്ര സമയമെടുക്കും തുടർന്ന് ഈ നെറ്റ്വർക്കുകളിൽ ഉപയോക്താക്കൾക്ക് എന്ത് പ്രവർത്തന നിലയാണ് ഉള്ളത് അതിനാൽ ഇപ്പോൾ നമ്മൾ മുമ്പ് കാണാനിടയുള്ള വിഷയം നോക്കാൻ പോകുന്നു ഇത് നെറ്റ്വർക്ക് വിശകലനമാണ് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ നെറ്റ്വർക്ക് വിശകലനത്തിൽ വികസിപ്പിച്ച മെട്രിക്സ് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലുകളും നമ്മുടെ പക്കലുണ്ട് ഇവിടെ അവർ വിസ്പർ ട്വിറ്ററുമായി താരതമ്യപ്പെടുത്തുകയും അവർ ഫെയ്സ്ബുക്കിൽ നിന്ന് ക്രമരഹിതമായ ഉപയോക്താക്കളെയും എടുക്കുകയും ചെയ്തു അതിനാൽ ഗ്രാഫിലെ ആദ്യ നിര വിസ്പർ ഫെയ്സ്ബുക്ക് ട്വിറ്റർ എന്നിവയാണ് രണ്ടാമത്തെ നിര നോഡുകളുടെ എണ്ണമാണ് വിസ്പറിൽ 690000 നോഡുകൾ ഫേസ്ബുക്കിൽ 707000 ട്വിറ്ററിൽ 4317000 നോഡുകൾ അരികുകളുടെ എണ്ണം ശരാശരി ഡിഗ്രി ക്ലസ്റ്ററിംഗ് കോഫിഷ്യന്റ് ശരാശരി പാത്ത് ദൈർഘ്യം വർഗ്ഗീകരണ ഗുണകം എന്നിവയാണ് മറ്റ് നിരകൾ ഞാൻ ശരാശരി ഡിഗ്രി ക്ലസ്റ്ററിംഗ് കോഫിഫിഷ്യന്റിലൂടെയും ബാക്കിയുള്ളവയിലൂടെയും പോയി ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങളോട് പറയും അതിനാൽ ആദ്യം നിങ്ങൾ നാലാം നിര നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ശരാശരി ഡിഗ്രി കാണിക്കുന്നു ഫെയ്സ്ബുക്കും ട്വിറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി ഡിഗ്രി വാസ്തവത്തിൽ വളരെ ഉയർന്നതാണ് അതിന്റെ അർത്ഥമെന്താണ് ഇതിനർത്ഥം ഞാൻ അതിലേക്ക് കൂടുതൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് ഇത് ക്ലസ്റ്ററിംഗ് കോഫിഷ്യന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇത് ഉപയോക്താക്കൾ കൂടുതൽ ഉപയോക്താക്കളുടെ വലിയ സാമ്പിളുമായി സംവദിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് വിസ്പറിലെ ഏതൊരു ഉപയോക്താവിനും ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവർ മറ്റുവിധത്തിൽ ഇടപെടുന്നു അവർ വലിയ കൂട്ടം ആളുകളുമായി ഇടപഴകുന്നു നിങ്ങൾ അതിനെ ഫെയ്സ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ പരസ്പരബന്ധം അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു മിക്കവാറും നിങ്ങളെ പിന്തുടരുന്നവർ അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങളെ പരാമർശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഹാഷ്ടാഗ് ഫേസ്ബുക്ക് കൂടുതലും സുഹൃത്തുക്കളാണ് അതിനാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ അത് 1 78 മാത്രമാണ് ട്വിറ്ററിന് ഇത് 3 93 ആണ് ഇനി നമുക്ക് വിസ്പർ നോക്കാം അത് 9 47 ആണ് ഉപയോക്താക്കളോട് അവർ വിസ്പറിൽ സംവദിക്കുന്ന ഡിഗ്രി വളരെ വലുതാണ് വിസ്പർ ഉപയോക്താക്കൾ പൂർണ്ണമായും അപരിചിതരുമായി സംവദിക്കാൻ സാധ്യതയുണ്ട് ക്ലസ്റ്ററിംഗ് കോഫിഷ്യന്റ് നോക്കുക നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ക്ലസ്റ്ററിംഗ് കോഫിഷ്യന്റ് എന്താണ് പറയുന്നത് ക്ലസ്റ്ററിംഗ് കോഫിഷ്യന്റ് ഗ്രാഫ് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് പറയാൻ നിങ്ങളെ അനുവദിക്കുന്നു വിസ്പറുകൾ അല്ലെങ്കിൽ വിസ്പർ ഉപയോക്താക്കൾ ഒരിക്കലും പരസ്പരം ഇടപഴകാറില്ല പക്ഷെ പൂർണ്ണ അപരിചിതരുമായി സംവദിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ മൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണ് ട്വിറ്ററിൽ 0 059 0 048 എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 0 033 ആണ് അതിനാൽ അവർ 100 റാൻഡം നോഡുകളും ശരാശരി പാത്ത് ദൈർഘ്യവും കണക്കാക്കിയിട്ടുണ്ട് ഏറ്റവും ചെറിയ പാതയായിരുന്നു ഏറ്റവും ചെറിയ ശരാശരി പാത 3 ൽ ഇത് വാസ്തവത്തിൽ വിസ്പർനുള്ളതാണ് നിങ്ങൾ നിരയുടെ ശരാശരി പാത്ത് ദൈർഘ്യം നോക്കുകയാണെങ്കിൽ അത് വിസ്പറിന് 4 28 ഫെയ്സ്ബുക്കിന് 10 13 ട്വിറ്ററിന് 5 52 എന്നിവയാണ് അതിനാൽ വിസ്പർ ഗ്രാഫിലെ ശരാശരി ദൈർഘ്യം ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും താഴ്ന്നതാണെന്നും ശരാശരി പാത്ത് ദൈർഘ്യമുണ്ടെന്നും ഇത് പറയുന്നു അടിസ്ഥാനപരമായി ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ശരാശരി ഡിഗ്രി ഏറ്റവും ഉയർന്നതും ക്ലസ്റ്ററിംഗ് കോഫിഷ്യന്റ് താഴ്ന്നതുമാണ് ശരാശരി പാത്ത് ദൈർഘ്യം കുറവാണെന്ന് അനുമാനിക്കപ്പെടുന്നു അതാണ് ക്രമരഹിതമായ ഗ്രാഫ് ആളുകളുടെ ഇടപെടലുകൾ തികച്ചും ക്രമരഹിതമാണ് വിസ്പർ പോലുള്ള ഒരു നെറ്റ്വർക്കിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക ചെറിയ പ്രതിഭാസമില്ല ഫെയ്സ്ബുക്കും ട്വിറ്ററും പോലെ നമ്മൾ കണ്ട പരമ്പരാഗത നെറ്റ്വർക്കുകളിൽ നിന്നുള്ള നല്ലൊരു വ്യത്യാസമാണിത് ഇനി നമുക്ക് അസ്സോർടെറ്റിവിറ്റി നോക്കാം സമാന ഡിഗ്രികളെ മറ്റ് നോഡുകളുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു ഗ്രാഫിലെ നോഡുകളുടെ സംഭാവ്യതയെ അസ്സോർടെറ്റിവിറ്റി അളക്കുന്നു അതിനാൽ മൂല്യം 0 ലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ മൂല്യം കുറവാണെങ്കിൽ ഗ്രാഫ് ക്രമരഹിതമാണെന്നോ അല്ലെങ്കിൽ ഗ്രാഫ് ക്രമരഹിതമായ ഗ്രാഫ് ആണെന്നോ നിങ്ങൾക്ക് അനുമാനിക്കാം നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം മൈനസ് 0 011 ആണ് ഇതാണ് എല്ലാ 3 ഗ്രാഫുകൾക്കും ഉള്ള വിസ്പറിന്റെ അസ്സോർടെറ്റിവിറ്റി കോഎഫ്ഫിഷിയൻറ് ഇത് ക്രമരഹിതമായ ഗ്രാഫാണെന്ന് അടിസ്ഥാനപരമായി പറയുന്നു ഇത് വ്യക്തമാണെന്ന് എനിക്കറിയാം അതിനാൽ അടിസ്ഥാനപരമായി ഈ നെറ്റ്വർക്ക് വിശകലനത്തിൽ നിന്നുള്ള നിഗമനം ആണ് വിസ്പർ നെറ്റ്വർക്ക് ഒരു ക്രമരഹിതമായ ഗ്രാഫാണ് വിസ്പർ നെറ്റ്വർക്കിൽ ആളുകൾ ക്രമരഹിതമായ ആളുകളുമായി ഇടപഴകുകയും അതിന്റെ ഗ്രാഫ് വളരെ വിരളവുമാണ് അതിനാൽ ഇപ്പോൾ അവർ ചെയ്ത മറ്റൊരു രസകരമായ കാര്യം വിസ്പറിൽ ഉള്ളടക്കം ഡിലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു എന്നതാണ് അതിനാൽ ഇതിനായി അവർ ഏകദേശം 1 7 ദശലക്ഷം വിസ്പറുകൾ ശേഖരിച്ചു അത് 3 മാസത്തിനുള്ളിൽ 18 ശതമാനം ഉള്ളടക്കം ഡിലീറ്റ് ആയി സൃഷ്ടിച്ച മൊത്തം ഉള്ളടക്കത്തിന്റെ 18 ശതമാനം വിസ്പറിൽ നിന്ന് ഡിലീറ്റ് ആയി ട്വിറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 4 ശതമാനം മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ ശതമാനം വിസ്പറിൽ ഉയർന്നു നില്കുന്നു എന്ന ചോദ്യം ചോദിയ്ക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു അജ്ഞാതമായ ഉള്ളടക്കം നിങ്ങൾ പോസ്റ്റു ചെയ്യുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടാത്തതോ നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ ആവശ്യമില്ലാത്തതോ ആയ ചില ഉള്ളടക്കങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചതായി നിങ്ങൾക്ക് തോന്നാം ഇത് ഒരു അജ്ഞാത നെറ്റ്വർക്ക് ആണെങ്കിലും അത് ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ വിസ്പറിൽ സൃഷ്ടിക്കപ്പെട്ട ഉള്ളടക്കത്തിന്റെ ഉയർന്ന അനുപാതം ഡിലീറ്റ് ചെയ്യപെടുന്നു അടുത്തത് കണ്ടന്റ് മോഡറേഷൻ ആണ് അപ്പോൾ വിസ്പറിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് മോഡറേഷൻ അവർ നടത്തിയ വിശകലനത്തിൽ നിന്ന് അവർ എല്ലാ വിസ്പറുകളിൽ നിന്നും കീവേഡുകൾ പുറത്തെടുത്തു സൃഷ്ടിച്ചതോ വിസ്പറുകളിൽ നിന്ന് ശേഖരിച്ചതോ ആയ എല്ലാ വാചകങ്ങളും അവർ വെച്ചു അവർ പൊതുവായ സ്റ്റോപ്പ് വേർഡുകൾ നീക്കം ചെയ്തു വിസ്പറിന്റെ 0 05 ശതമാനത്തിൽ കുറവുള്ള വാക്കുകൾ അവർ നീക്കം ചെയ്തു യഥാർത്ഥത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിച്ച എല്ലാ വാക്കുകളും അവർ നീക്കം ചെയ്തു അപ്പോൾ അവർ ഡിലീഷിഷൻ അനുപാതം കണക്കാക്കുകയും ഒരു മൂല്യം നേടുകയും ചെയ്തു ഈ മൂല്യം ഡിലീറ്റ് ചെയ്ത വിസ്പറുകളുടെ എണ്ണം നൽകുന്നു ഈ വാക്ക് പോസ്റ്റിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ എന്താണ് സാധ്യത എന്ന് പറയാൻ ഇത് അടിസ്ഥാനപരമായി ഈ വാക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള അനുപാതം എന്താണ് വിസ്പർ ഡിലീറ്റ് ആകാനുള്ള അനുപാതം എന്താണ് ഇത് ഡിലീഷിഷൻ അനുപാതത്തിൽ വാക്കുകളെ റാങ്ക് ചെയ്യുന്നു ഡിലീഷിഷൻ അനുപാതത്തിലുള്ള എല്ലാ വാക്കുകളും അവർ അടിസ്ഥാനപരമായി റാങ്ക് ചെയ്യുന്നു കൂടാതെ അവർ മികച്ച പത്ത് കീവേഡുകളും താഴെയുള്ള കീവേഡുകളും നോക്കി മുകളിലുള്ള കീവേഡുകളും താഴെയുള്ള കീവേഡുകളും യഥാർത്ഥത്തിൽ കാണിക്കുന്ന പട്ടിക ആണ് ഇത് അടുത്ത സ്ലൈഡിൽ നമുക്ക് അത് കാണാം 9 ദശലക്ഷം യഥാർത്ഥ വിസ്പറുകൾ ക്കായി അവർ ഈ രീതികൾ നടത്തി 7 മില്യൺ ഡിലീറ്റ് ആയതായി അവർ കണ്ടു 2324 കീവേഡുകൾ ഇല്ലാതാക്കൽ അനുപാതം അനുസരിച്ച് റാങ്ക് ചെയ്തു സ്വമേധയാ അവർ അവ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി അവ ഡിലീറ്റ് ആയവയുടെ വലിയ വിഭാഗങ്ങൾ ഇവിടെ പട്ടികകളിൽ അവ റാങ്ക് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ് സെക്സ്റ്റിംഗ് സെൽഫി ചാറ്റ് ടോപ്പിക്ക് ഇമോഷൻ എന്നിവയായിരുന്നു അവയിൽ ഉണ്ടായിരുന്ന വിഭാഗങ്ങൾ ഡിലീറ്റ് ആയ വിസ്പറുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച 50 കീവേഡുകൾ ഇവയാണ് 50 പ്രധാന കീവേഡുകൾ പട്ടികയുടെ മുകളിൽ കാണാം പട്ടികയുടെ താഴെ ഏറ്റവും കുറവ് പ്രാവശ്യം ഡിലീറ്റ് ആയ വിസ്പറുകൾ നിങ്ങൾക്ക് നൽകുന്നു സെക്സ്റ്റിംഗ് സെൽഫി ചാറ്റ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വിഭാഗങ്ങൾ ഇമോഷൻ റിലീജിയൻ എന്റർടൈൻ ലൈഫ് സ്റ്റോറി വർക്ക് പൊളിറ്റിക്സ് എന്നീ വിസ്പറുകൾ ഏറ്റവും കുറവ് പ്രാവശ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട വിഭാഗങ്ങളാണെന്നും ഇത് കാണിക്കുന്നു ഡിലീഷിഷൻ നടക്കുന്ന രീതി നമുക്ക് നോക്കാം ഡിലീഷിഷൻ എത്ര സമയമെടുക്കും ഡിലീറ്റ് ചെയ്ത വിസ്പറുകൾ 70 ശതമാനവും പോസ്റ്റ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിലീറ്റ് ചെയ്യപ്പെടും അതിനാൽ ഇടതുവശത്തെ ആദ്യത്തെ ഗ്രാഫ് അതാണ് ഇത് പോസ്റ്റിന്റെ 70 ശതമാനമാണ് X ആക്സിസ് ആഴ്ചയാണ് Y ആക്സിസ് ഡിലീറ്റ് ചെയ്യപ്പെടാൻ ഉള്ള സാധ്യതയാണ് ഇത് വിസ്പറുകൾ ഡിലീറ്റ് ആകപെടുന്നതിന്റെ അനുപാതമാണ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ 70 ശതമാനം വിസ്പറുകൾ ഡിലീറ്റ് ചെയ്യപെടും ഗ്രാഫിന്റെ വലതുവശത്ത് വിസ്പർ ഡിലീറ്റ് ആകുന്നതിനു മുൻപുള്ള കാലതാമസം കാണിക്കുന്നു 2 ശതമാനം വിസ്പറുകൾ ഒരു മാസത്തിൽ കൂടുതൽ നിലനിൽക്കും അത് നാല് ആഴ്ച വരെ എടുക്കാം അതാണ് ഇടതുവശത്തുള്ള ഗ്രാഫ് കാണിക്കുന്നത് ഇപ്പോൾ വലതുവശത്തുള്ള ഉള്ളടക്ക വിശകലനം നോക്കാം ഏറ്റവും മികച്ച വിശകലനം 200000 ഏറ്റവും പുതിയ വിസ്പറുകൾ ക്കായി പുനർവിചിന്തനം ചെയ്തു അവർ യഥാർത്ഥത്തിൽ എത്ര മണിക്കൂർ മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇത് ആഴ്ചയിലെ ആദ്യത്തെ ഗ്രാഫ് ആണ് മണിക്കൂറുകളിലെ വിശകലനം എന്താണ് അവർക്ക് നൽകുന്നത് 32153 വിസ്പറുകൾ ഡിലീറ്റ് ആയി പീക്ക് ഡിലീറ്റ് 3 മുതൽ 9 മണിക്കൂർ ന് ഉള്ളിൽ ആണെന്ന് അവർ യഥാർത്ഥത്തിൽ കണ്ടെത്തി അത് ഏത് പോസ്റ്റിലാണെങ്കിലും രണ്ടും ഉണ്ടെങ്കിൽ അത് 3 മുതൽ 9 മണിക്കൂർ വരെയാണ് ഭൂരിഭാഗവും 24 മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്യ പെടുന്നു അതിനാൽ ഈ ഒരാഴ്ചത്തെ ഡാറ്റ നിങ്ങൾ നോക്കിയാൽ അവയിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഡിലീറ്റ് ചെയ്യ പെടുന്നു അവർ നടത്തിയ മറ്റൊരു രസകരമായ വിശകലനമാണ് ഉപയോക്തൃ ഇടപെടലുകൾ ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ എത്ര തവണ ഇടപഴകുന്നുവെന്ന് കണ്ടെത്താനാണ് ഇത് ഈ സാഹചര്യത്തിൽ 2 ഹാൻഡിലുകൾ യഥാർത്ഥത്തിൽ അവയ്ക്കിടയിൽ ഇടപെടുന്നു ഈ ഗ്രാഫിൽ X ആക്സിസ് ജോടിയാക്കിയ ഉപയോക്താക്കൾ തമ്മിലുള്ള ജിയോ ദൂരം കാണിക്കുന്നു ആളുകൾ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഉപയോക്തൃ ജോഡികളുടെ ശതമാനം ഒരു സംഖ്യ എന്താണ് യഥാർത്ഥത്തിൽ ഇടപെടുന്ന ഉപയോക്തൃ ജോഡികളുടെ ശതമാനം എന്താണ് ഇവയൊക്കെ കാണിക്കുന്നു കളർ ബ്ലൂ രണ്ട് ഇടപെടലുകളെ പ്രതിനിധാനം ചെയ്യുന്നു മഞ്ഞ കളർ രണ്ട് മുതൽ അഞ്ച് വരെ ഇടപെടലുകൾ പ്രതിനിധാനം ചെയ്യുന്നു ചുവപ്പ് 6 മുതൽ 10 വരെ ഇടപെടലുകൾ പ്രതിനിധാനം ചെയ്യുന്നു 10 ഇടപെടലുകൾക്ക് മുകളിലുള്ള എന്തും പച്ചയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇതിനകം ഉയർന്ന സംഭാഷണങ്ങളുടെ എണ്ണം ഊഹിച്ചേക്കാം അത് വാസ്തവത്തിൽ വളരെ കുറവാണു നെറ്റ്വർക്ക് വിശകലനം ഉപയോഗിച്ച് നമ്മൾ ഇതിനകം കണ്ട കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അനുമാനം ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഗ്രാഫിൽ പച്ച വളരെ കുറവായിരിക്കുന്നത് രണ്ട് ഉപയോക്താക്കളിൽ 90 ശതമാനവും ഒരേ സംസ്ഥാനത്താണ് 75 ശതമാനം പേർക്കും 40 മൈലിൽ താഴെ ദൂരമുണ്ട് അതിനാൽ ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നത് ഉപയോക്താക്കൾ വളരെ അടുത്താണ് 75 ശതമാനത്തിനുള്ളിൽ അവരുടെ ദൂരം 40 മൈലിൽ താഴെയാണ് സമീപ പ്രദേശത്തുള്ള ചെറിയ ഉപയോക്തൃ ജനസംഖ്യ നേരിടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ നിങ്ങൾ ഒരു ഗ്രാഫ് നോക്കിയാൽ 10 മുതൽ 100 വരെ 100 മുതൽ 100000 വരെ 1000 ൽ കൂടുതൽ ഇടതുവശത്താണെന്നും തുടർന്ന് ജോടിയാക്കിയ ഉപയോക്താവിന്റെ സംയോജിത പോസ്റ്റ് വലതുവശത്താണെന്നും നമുക്ക് കാണാൻ കഴിയും സമീപ പ്രദേശത്തുള്ള ഉപയോക്തൃ ജനസംഖ്യ ഇടത് വശത്ത് കാണിക്കുന്നു ജോടിയാക്കിയ ഉപയോക്താക്കളുടെ പോസ്റ്റുകളുടെ സംയോജിത എണ്ണം വലത് കാണിക്കുന്നു രണ്ട് ഉപയോക്താക്കൾ കൂടുതൽ വിസ്പറുകൾ പോസ്റ്റ് ചെയ്യുന്നു മിക്കവാറും അവർ പരസ്പരം കണ്ടുമുട്ടുന്നു ഉപയോക്താക്കൾ കൂടുതൽ പോസ്റ്റുചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ കൂടുതൽ ഇടപഴകാനും സാധ്യതയുണ്ട് അതിനാൽ വാസ്തവത്തിൽ നമ്മൾ ജോടിയാക്കിയ ഉപയോക്താക്കളുടെ പോസ്റ്റുകളുടെ സംയോജനം ഗ്രാഫിന്റെ വലതുവശത്താണ് നോക്കുന്നത് നിങ്ങൾക്കും എനിക്കും ഇടപഴകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ഇടപഴകാൻ സാധ്യതയുള്ള കൂടുതൽ വിസ്പറുകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ രണ്ട് ഉപയോക്താക്കൾ പോസ്റ്റുചെയ്യുന്ന കൂടുതൽ വിസ്പറുകൾ ഉണ്ടാകും അതാണ് നിങ്ങൾക്ക് വരയ്ക്കാനാകുന്ന അനുമാനം ഇപ്പോൾ ഉപയോക്താക്കൾ ഈ നെറ്റ്വർക്കിൽ വിസ്പറിൽ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നോക്കുക അതിനാൽ ഇവിടെ X ആക്സിസ് ആഴ്ചയുടെ സമയമാണ് Y ആക്സിസ് എന്നത് ഉപയോക്താക്കളുടെ സഞ്ചിത സംഖ്യയാണ് കൂടാതെ ഈ ഗ്രാഫിൽ വരച്ച രണ്ട് ഡാറ്റാ പോയിന്റുകൾ നിലവിലുള്ളതും സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ഉള്ളടക്കവുമാണ് ആഴ്ചയിൽ ഏകദേശം 80000 ഉപയോക്താക്കൾ പ്രതിദിനം സംവദിക്കുന്നു മുഴുവൻ നെറ്റ്വർക്കിലും പുതിയ പോസ്റ്റുകൾ സുസ്ഥിരമായി തുടരും അടുത്ത ഗ്രാഫിലും നമ്മൾ യഥാർത്ഥത്തിൽ കാണും ഇത് എങ്ങനെയാണ് പുനർനാമകരണം ചെയ്യുന്നത് ആഴ്ചയിൽ സൃഷ്ടിക്കുന്ന പുതിയ ഉള്ളടക്കം ഗ്രാഫിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അവ യഥാർത്ഥത്തിൽ ഒരേപോലെ കാണുന്നു നെറ്റ്വർക്കിലേക്ക് കൂടുതൽ ഉപയോക്താക്കൾ ചേർക്കപ്പെടുന്നുണ്ടെങ്കിലും സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ഉള്ളടക്കം യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നതായി തോന്നുന്നില്ല ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രസകരമായ നിഗമനമാണിത് പുതിയ ഉപയോക്താക്കൾ ചേർന്നിട്ടും മുഴുവൻ നെറ്റ്വർക്കിലും പ്രതിദിന പുതിയ പോസ്റ്റുകൾ സുസ്ഥിരമായി തുടരും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നത് എന്തെന്നാൽ ഉപയോക്താക്കൾ വർദ്ധിക്കുമ്പോൾ പോസ്റ്റുകളും ഇടപെടലുകളും വർദ്ധിക്കണം എന്നാണ് പക്ഷേ അത് നടക്കുന്നില്ല നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടെന്ന് ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നു അവർ ചില ഉള്ളടക്കം സൃഷ്ടിക്കുന്നു തുടർന്ന് ഇതിനകം നെറ്റ്വർക്കിലുണ്ടെന്ന് അറിയപ്പെടുന്ന ധാരാളം ആളുകൾ ഉള്ളടക്കം സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ടാണ് ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്ന നെറ്റ് അനുപാതം എല്ലായ്പ്പോഴും അതേപടി നിലനിൽക്കുന്നത് ഇതിലേക്ക് കൂടുതൽ ഉപയോക്താക്കളെ ചേർത്തിട്ടുണ്ടെങ്കിലും ഇത് തന്നെ സംഭവിക്കുന്നു അടുത്തത് ഉപയോക്തൃ ഇടപെടലാണ് അതിനാൽ ഞാൻ യഥാർത്ഥത്തിൽ കാണിച്ചുതരുന്ന ഗ്രാഫ് ഇതാണ് ഒരു ആഴ്ചയിലെ വിസ്പറുകളുടെയും മറുപടികളുടെയും എണ്ണം ആണ് ഇത് ഇതും ആഴ്ചകളിലാണ് കാണിക്കുന്നത് അതിനാൽ ഇത് ഒരേ തരത്തിലുള്ള ഗ്രാഫാണ് പുതിയതും പഴയതുമായ ഉപയോക്താക്കളുടെ വിസ്പറുകളുടെയും മറുപടികളുടെയും എണ്ണം നിങ്ങൾ കാണും നിങ്ങൾ കാണുകയാണെങ്കിൽ മുകളിൽ പുതിയ ഉപയോക്താക്കൾ ഉള്ളടക്കത്തിലെ സംഭാവനയുടെ ഇരുപത് ശതമാനം നൽകുന്നു പുതിയ ഉപയോക്താക്കളുടെ ഉള്ളടക്കം വളരുന്നില്ല അതിനാൽ ഇത് ആ ആഴ്ചയിലെ വിസ്പറുകളുടെയും മറുപടികളുടെയും സമയവും എണ്ണവുമാണ് മുമ്പത്തെ ഗ്രാഫ് ഉപയോക്താക്കളുടെ സഞ്ചിത സംഖ്യയും ഉപയോക്താക്കളുടെ എണ്ണവും ആയിരുന്നു അതിനാൽ നിലവിലുള്ള ഉപയോക്താക്കൾ ഗ്രാഫ് ബാർ യഥാർത്ഥമാണോയെന്ന് പരിശോധിക്കാതെ തന്നെ കുറവാണ് ഇത് ഉയർന്നു ഇത് ഉപയോക്താക്കളുടെ എണ്ണം യഥാർത്ഥത്തിൽ ഉയർന്നുവെന്ന് കാണിക്കുന്നു പോസ്റ്റും മറുപടികളും അടുത്ത ഗ്രാഫ് നിങ്ങൾക്ക് കാണിച്ചുതരുന്നു ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടും നെറ്റ്വർക്കിൽ ഉള്ളത് വളരെ സ്ഥിരമാണ് അതിനാൽ ഉപയോക്തൃ ഇടപെടലിൽ അവർക്ക് ഉണ്ടായിരുന്ന നിഗമനം അതാണ് അടിസ്ഥാനപരമായി നമ്മൾ ആരംഭിച്ച ചോദ്യത്തെ അഭിസംബോധന ചെയ്യുന്നു അതായത് ഉപയോക്താവ് വിസ്പർ പോലുള്ള നെറ്റ്വർക്കിൽ വ്യത്യസ്തമായി ഇടപെടുന്നു അതിനാൽ നിഗമനം പരമ്പരാഗത സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് വ്യക്തമായി വ്യത്യസ്തമാണ് ശരാശരി പാത്ത് ദൈർഘ്യം വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു ക്ലസ്റ്ററിംഗ് കോഫിഷിയൻറ് വ്യത്യസ്തമാണ് ഡിലീഷൻ യഥാർത്ഥത്തിൽ വളരെ ഉയർന്നതാണെന്നും അതുപോലുള്ള നിഗമനങ്ങളും നമ്മൾ കണ്ടു ശക്തമായ ഉപയോക്തൃ ഐഡന്റിറ്റികളോ സ്ഥിരമായ സോഷ്യൽ ലിങ്കുകളോ ഇല്ലാതെ ഉപയോക്താക്കൾ അപരിചിതരുമായി ഇടപഴകുന്നു ഇത് ഉപയോക്താവ് നെറ്റ്വർക്കിലെ ഏതെങ്കിലും ക്രമരഹിതമായ ആളുകളുമായി ഇടപഴകുന്നു എന്ന നിഗമനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഉപയോക്താക്കൾക്കിടയിൽ ഒരു സ്ഥിരമായ ബന്ധം ഉണ്ടായിരുന്നില്ല കാരണം മോഡറേഷൻ തീർച്ചയായും ആവശ്യമാണ് കാരണം ഉള്ളടക്കം വളരെ ഉയർന്ന രീതിയിൽ ഇല്ലാതാക്കപ്പെടുന്നു അതിനാൽ ഈ ആഴ്ചയിൽ എനിക്ക് ഉണ്ടായിരുന്നത് ഇത്രമാത്രം ഈ ആഴ്ച 8 2 ൽ നമ്മൾ അജ്ഞാത നെറ്റ്വർക്കുകൾ കണ്ടു നിങ്ങൾക്ക് ഉള്ളടക്കം പോസ്റ്റുചെയ്യാനും ഉയർന്ന അജ്ഞാതത്വം നിലനിർത്താനും കഴിയുന്ന നെറ്റ്വർക്കുകളാണ് ഇവ 1 ആഴ്ചയിൽ നമുക്ക് നൽകിയിട്ടുള്ള ഒന്നിലധികം അക്കൌണ്ടുകൾ ഉപയോഗിച്ച് ഒരേപോലെയുള്ള മിഴിവ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു അതാണ് നമുക്ക് ലഭിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണും